ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 30 ലാണ് അതിനാൽ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് I ൽ ചെയ്യാൻ പോകുന്നു അതിനാൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു വസ്തുവാണ് നമുക്ക് ഒരു കാർ ചെയ്യുന്നുണ്ടാകാം അതിനാൽ ആദ്യത്തേത് വസ്തുവാണ് രണ്ടാമത്തേത് നിരീക്ഷകനാണ് ഒന്നുകിൽ ടോപ് വ്യൂ നമുക്ക് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണിവ കാരണം പ്രൊജക്ഷനുകളാണ് ആ വസ്തുവിന്റെ യഥാർത്ഥ അളവുകൾ നമുക്ക് നൽകുന്നത് അവസാന ക്ലാസുകളിൽ ഒരു വസ്തു സ്ഥിതിചെയ്യുന്ന വ്യത്യസ്ത തരം ക്വാഡ്രന്റുകളെക്കുറിച്ച് എന്ന് വിളിക്കുന്നു ഒരു വസ്തു ആ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ ഈ വസ്തു അത് ആ പ്ലെയിനിലേക്കു മാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊജക്ഷൻ ഇതിനെ നമ്മൾ റഫറൻസ് പ്ലെയിൻ ഈ ലംബ തലം തിരശ്ചീന തലം എന്നിവയിലെ വസ്തുക്കളായി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഈ പ്ലെയിൻസിനെ ചെയ്യപ്പെടുന്ന ഒരു ബിന്ദു നമുക്ക് പരിഗണിക്കാം ഉദാഹരണത്തിന് എ

ചെറിയക്ഷരം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ നിവർത്തുന്നു അതിനാൽ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു ബിന്ദുവിനെ സംബന്ധിച്ചുള്ളതാണ് ഈ കാര്യങ്ങൾ നമുക്ക് തേർഡ് ക്വാഡ്രന്റിലെ നമ്മൾ തല്പരരാണ് നമ്മൾ കണ്ടത് മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് തിരിക്കുന്നു അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്

എ ലഭിക്കുന്നു ഇപ്പോൾ ഇത് ഒരു തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് എന്ന് പേരിടാം നമുക്ക് വീണ്ടും ഇത് നോക്കാം നമുക്ക് ഈ എ ആകുന്നു ഈ ബിന്ദു നമ്മൾ തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് എന്ന് വിളിക്കാനും കഴിയും എ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇത് താഴ്ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ രേഖ ലഭിക്കും അതിനാൽ ഇവിടെ നമുക്ക് ഒരു തിരശ്ചീന തലം ലഭിക്കും അതിനാൽ നമ്മൾ ഏതെങ്കിലും ദ്വിമാന കാര്യങ്ങൾ നിർമ്മിക്കാൻ പോകുന്നുവെങ്കിൽ നമ്മൾ ഈ വസ്തു പൂർണ്ണമായും കാണിക്കില്ല പ്രോജെക്ഷൻസ് അതൊരു രേഖ പോലെയുമാണ് അതിനാൽ ഈ രേഖകളിലോ ഈ പ്ലെയിനുകളിലോ ആ മുദ്രണം ആ രീതിയിൽ നമ്മൾ കാണിക്കുന്നു ഇനി അത് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ചെയ്യുക റേഡിയലി മാറ്റി സ്ഥാപിക്കുക അതിനാൽ നമുക്ക് ഒരു മുദ്രണം ഉണ്ടാകും നമ്മൾ ഈ വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒരു തിരശ്ചീന തലം പോലെയാണ് അവിടെ ലംബ തലം ഈ ദിശയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു രേഖ പോലെ കാണപ്പെടുന്നു മുകളിലുള്ളത് തിരശ്ചീന തലമാണ് ചുവടെയുള്ളത് ലംബ തലമാണ് അതുപോലെ നമ്മൾ സെക്കന്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എന്നും വിളിക്കാം ഈ വ്യൂവിൽ ആണ് നമുക്ക് ഫോർത് ക്വാഡ്രന്റിലെ പ്രദക്ഷിണമായി തിരിക്കുക നമ്മൾ അവ നിർമ്മിക്കുകയാണെങ്കിൽ പ്രൊജക്ഷനുകളിലൊന്ന് തിരിക്കുക അതിനാൽ വ്യത്യസ്ത ക്വാഡ്രന്റുകളിലെ എല്ലായ്പ്പോഴും ലംബ തലത്തിലേക്ക് ആയിരിക്കും അതിനാൽ അതിനെ നമ്മൾ ദൂരത്തിന് തുല്യമാണ്

ഈ ത്രിമാന ചിത്രം കാണിക്കുന്നതിനുപകരം നമുക്ക് ദൈർഘ്യത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുന്ന ഈ ദ്വിമാന ചട്ടക്കൂടിൽ ഇത് കാണിക്കുന്നത് എല്ലായ്പ്പോഴും സൌകര്യപ്രദമാണ് അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊജക്ഷനുകൾ ഉപയോഗിക്കുന്നതിന് കാരണം ത്രിമാന വസ്തുക്കൾ കാണിക്കുന്നതും അളവുകൾ കണ്ടെത്തുന്നതും എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ ഈ വ്യത്യസ്ത പ്ലെയിനുകളിലേക്കു ചെയ്യുകയാണെങ്കിൽ ദൂരം അളക്കാനും അവ പുനർനിർമ്മിക്കാനും നമുക്ക് എളുപ്പമാകും എ എന്ന ബിന്ദു തിരഞ്ഞെടുക്കാം അത് തിരശ്ചീന തലത്തിന് മുകളിലാണ് പക്ഷേ അത് ഒരു ലംബ തലത്തിലാണ് അത് ഇവിടെ എവിടെയെങ്കിലും അല്ല പക്ഷേ അത് കൃത്യമായി ആ ലംബ തലത്തിലാണ് അങ്ങനെയാണെങ്കിൽ എ ലംബ തലത്തിൽ നമുക്ക് കാണാനാകും അതിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം എങ്കിൽ എ എന്ന് വിളിക്കുന്നത്

ഇപ്പോൾ തിരശ്ചീന തലത്തിലേക്കുള്ള എയുടെ ആണ്

ലംബവും തിരശ്ചീനവുമായ തലങ്ങൾ തമ്മിൽ പരസ്പരം ഛേദിക്കുന്ന അച്ചുതണ്ടാണ് X Y അതിനാൽ ആ എക്സ് വൈയിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് 0 നൽകുന്നു ഒരു ബിന്ദുവിന്റെ വ്യത്യസ്ത പ്ലെയിനുകളിലെ

അതേ ബാഹ്യകാരത്തിന്റെ അതേ ബിന്ദുവിന്റെ സൈഡ് വ്യൂ പ്രൊജക്ഷൻ നമ്മൾ മുന്നോട്ട് പോകുന്നു അതിനാൽ ഇത് ഈ രീതിയിൽ ആയിരിക്കും അതുപോലെ നമ്മൾ ഒരു ബിന്ദു കൃത്യമായി തിരശ്ചീനതലത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ആ ലംബതലത്തിനു മുകളിൽ തിരശ്ചീന തലത്തിനു മുകളിലുള്ള ലംബ തലം അതിനർത്ഥം ഈ ബിന്ദു ശേഷം അതിന്റെ പ്രൊജക്ഷൻ ലംബ തലത്തിൽ നമുക്ക് നൽകുന്നു തിരശ്ചീനതലത്തിൽ 0 എന്ന സ്ഥലത്ത് ലംബ തലത്തിന് മുന്നിലുള്ള തിരശ്ചീന തലത്തിലാണ് എ സംഭവിക്കുന്ന രീതി ഉദാഹരണത്തിന് നമുക്ക് ലംബ തലത്തിന് മുന്നിൽ 3 സെന്റീമീറ്റർ ചെയ്യുന്നതിനായി ഇതിനെ ക്ഷണിക്കുക അതുപോലെ ഇത് നമ്മൾ കൂടുതൽ പഠിക്കും